റിംഗ് ഹോമോമോർഫിസങ്ങളെക്കുറിച്ചുള്ള പഠനം തുടരാം റിംഗ് ഹോമോമോർഫിസത്തിന്റെ ചില പ്രധാന ഉദാഹരണങ്ങൾ നമ്മൾ നിർവചിക്കുകയും പരിശോധിക്കുകയും ചെയ്തു ഇപ്പോൾ റിംഗ് ഹോമോമോർഫിസങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് ഞാൻ സംസാരിക്കാൻ പോകുന്നു നമുക്ക് ആരംഭിക്കാം നമ്മൾ ഇപ്പോൾ ചെയ്യുന്നത് "റിംഗ് ഹോമോമോർഫിസത്തിന്റെ കേർണൽ " എന്ന് വിളിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് ഗ്രൂപ്പ് സിദ്ധാന്തത്തിൽ നിന്ന് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം ഗ്രൂപ്പ് ഹോമോമോർഫിസങ്ങളെക്കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കിയപ്പോൾ ഒരു ഗ്രൂപ്പ് ഹോമോമോർഫിസത്തിന്റെ കേർണൽ എന്നൊരു കാര്യമുണ്ട് നമുക്ക് അത് ചെയ്യാം ഒരു ഹോമോമോർഫിസത്തിന്റെ കേർണൽ നോക്കാം നിർവചനം കൃത്യമായി സമാനമാണ് അതിനുമുമ്പ് ഞാൻ നിങ്ങൾക്ക് ഒരു എക്സ്സർസൈസ് തരാം R മുതൽ R' വരെയുള്ള φ ഒരു റിംഗ് ഹോമോമോർഫിസമാണ് എന്ന് നമുക്ക് പറയാം ഇവിടെ തീർച്ചയായും ഞാൻ ഇത് പറയുന്നില്ല പക്ഷേ R R' രണ്ട് റിങ്ങുകളാണ് R R' രണ്ട് റിങ്ങുകളും φ ഒരു ഹോമോമോർഫിസവുമാണ് പിന്നെ നിങ്ങൾ φ നോക്കിയാൽ R ലെ ഗുണിത ഘടന മറക്കുക മറ്റൊരു തരത്തിൽ R R' എന്നിവയുടെ അഡിറ്റീവ്ഗ്രൂപ്പിലേക്ക് നോക്കുക അഡിറ്റീവ് ഗ്രൂപ്പുകളുടെ ഒരു പ്രവർത്തനമായി നിങ്ങൾ R മുതൽ R' വരെ നോക്കുകയാണെങ്കിൽ ഇത് ഒരു ഗ്രൂപ്പ് ഹോമോമോർഫിസം ആണ് നിങ്ങൾ മുമ്പത്തെ വീഡിയോയിലേക്ക് പോയി പ്രസക്തമായ ഭാഗങ്ങൾ നോക്കിയാൽ ഇതിന്റെ തെളിവ് നിങ്ങൾ കാണും നിർവചനം അനുസരിച്ച് φab φ φ ആണ് എന്നാൽ മറ്റ് ഗുണവിശേഷതകൾ φ 0 φ φ എന്ന് പറയുന്നു ഇത് പരിശോധിക്കാൻ പ്രയാസമില്ല ഇത് ഒരു ഗ്രൂപ്പ് ഹോമോമോർഫിസമാണ് ഇപ്പോൾ അങ്ങനെ ഓർക്കുക അങ്ങനെ ചെയ്യുന്നതിനുള്ള ഈ എക്സ്സർസൈസ് നിങ്ങൾ ഇത് ചെയ്യണം ഒരു ഗ്രൂപ്പ് ഹോമോമോർഫിസത്തിന്റെ കേർണൽ ഓർമ്മിക്കുക ഗ്രൂപ്പ് ഹോമോമോർഫിസത്തിന്റെ കേർണൽ എന്താണ് 0 ലെക്ക് മാപ്പ് ചെയ്യുന്ന എലെമെന്റ്സിന്റെ സെറ്റാണിത് കേർണൽ എല്ലായ്പ്പോഴും 0 ലേക്ക് മാപ്പ് ചെയ്യുന്ന എലെമെന്റ്സിന്റെ സെറ്റാണ് നമ്മൾ ഇവിടെ അതേ നിർവചനം ഉപയോഗിക്കുന്നു ഇത് ശരിക്കും ഒരു സെറ്റ് സൈദ്ധാന്തിക വസ്തുവാണ് റിംഗ് ഹോമോമോഫിസത്തിനും നമ്മൾ അതേ നിർവചനം ഉപയോഗിക്കുന്നു φ യുടെ കേർണൽ ഇപ്പോൾ ഇത് ഒരു വശമാണ് R മുതൽ R' വരെ ഒരു റിംഗ് ഹോമോമോർഫിസം Ker φ സൂചിപ്പിക്കുന്ന "കേർണൽ ഓഫ് φ kernel of φ" നിർവചനം അനുസരിച്ച് φ 0 ആകുന്ന R ന്റെ എല്ലാ എലെമെന്റ്സിന്റെയും സെറ്റാണ് നമുക്ക് അൽപ്പം ശ്രദ്ധ കേന്ദ്രീകരിക്കാം ഏത് തരത്തിലുള്ള എലെമെന്റാണ് ഇത് ഏത് തരം സബ്സെറ്റാണ് ഇത് R റിങ്ങിന്റെ സബ്സെറ്റാണ് പക്ഷേ ഗ്രൂപ്പ് ഹോമോമോർഫിസത്തിന്റെ ആശയം ഉപയോഗിച്ച് കേർണൽ ശരിക്കും നിർവചിക്കപ്പെട്ടിരിക്കുന്നതിനാൽ ഇത് ഒരു സബ്സെറ്റിനേക്കാൾ കൂടുതലാണ് വാസ്തവത്തിൽ കേർണൽ ϕ ഒരു സബ്ഗ്രൂപ്പാണ് R ലെ അഡിറ്റിവിറ്റിയെക്കുറിച്ചാണ് നമ്മൾ നോക്കുന്നത് ഞാൻ അഡിറ്റീവ് സബ്ഗ്രൂപ്പ് എഴുതാൻ പോകുന്നു R ന്റെ അഡിറ്റീവ് സബ്ഗ്രൂപ്പ് ഞാൻ R എഴുതുമ്പോൾ ഞാൻ അർത്ഥമാക്കുന്നത് ഗുണനത്തെ മറക്കുന്ന ഒരു അഡിറ്റീവ് ഗ്രൂപ്പായി ഞാൻ R നെ നോക്കുന്നുവെന്നാണ് ഇത് ഒരു അഡിറ്റീവ് സബ്ഗ്രൂപ്പാണ് മാത്രമല്ല ഗ്രൂപ്പ് സിദ്ധാന്തത്തിൽ നമ്മൾ ഇത് കൃത്യമായി ചെയ്തു 0 കേർണലിലാണ് a b എന്നിവ കേർണലിലാണെങ്കിൽ ab നിർവചനത്തിൽ നിന്ന് കേർണലിലാണ് a കേർണലിലാണെങ്കിൽ a കേർണലിലാണ് റിംഗ് തിയറിയിലേക്ക് നമുക്ക് തിരിച്ചുവരാം നമ്മൾ റിങ്ങുകൾ ഗ്രൂപ്പുകളല്ല ചെയ്യുന്നത് കേർണലിന് മറ്റ് എന്ത് ഗുണങ്ങളുണ്ട് കേർണൽ സബ് റിംഗ് ആണോ ഒരു നിമിഷം ചിന്തിക്കുക കേർണൽ ഒരു സബ് റിങ്ങാണോ അല്ല കാരണം ഒരു സബ് റിംഗ് ഒരു സബ്സെറ്റാണെന്ന് ഓർമ്മിക്കുക അത് സ്വയം ഒരു റിംഗ് ആണ് പ്രത്യേകിച്ചും അതിൽ 1 അടങ്ങിയിരിക്കണം പക്ഷേ കേർണലിൽ 1 അടങ്ങിയിരിക്കാമോ ഇല്ല കേർണലിൽ 1 അടങ്ങിയിട്ടില്ല കാരണം 1 ന്റെ φ എന്താണ് നിർവചനം അനുസരിച്ച് 1 ന്റെ φ 1 ആണ് ഞാൻ എല്ലായ്പ്പോഴും R ൽ 1 0 അല്ലെന്നും അനുമാനിക്കുന്നു R' എല്ലായ്പ്പോഴും എല്ലാ റിങ്ങുകളും പൂജ്യമല്ലെന്ന് കരുതുക കുറഞ്ഞത് രണ്ട് ഘടകങ്ങളെങ്കിലും ഉണ്ട് 1 0 എന്നിവ വ്യത്യസ്ത ഘടകങ്ങളാണ് 1 അല്ല 0 കേർണൽ ϕ ഒരു സബ് റിങ്ങല്ല ഒരു സബ്ഗ്രൂപ്പ് എന്ന സബ്ഗ്രൂപ്പിന്റെ കേർണലുമായി സാമ്യമുള്ളത് ഇവിടെ ഒരു സബ്ഗ്രൂപ്പല്ല മറിച്ച് ഇതിന് നല്ല ഗുണങ്ങളുണ്ട് പ്രത്യേകിച്ചും ഒരു അഡിറ്റീവ് സബ്ഗ്രൂപ്പ് എന്നതിനപ്പുറം ഇതിന് ഇനിപ്പറയുന്ന പ്രോപ്പർട്ടി ഉണ്ട് കേർണൽ ϕ യ്ക്ക് ഇനിപ്പറയുന്ന പ്രോപ്പർട്ടി ഉണ്ട് കേർണലിലാണെങ്കിൽ അത് ഗുണനത്തിന് കീഴിൽ ക്ലോസ്ഡ് ആണ് പക്ഷേ ശക്തമായ രീതിയിലാണ് കേർണലിലെ രണ്ട് വസ്തുക്കളുടെ ഗുണനം കേർണലിലാണെന്ന അർത്ഥത്തിൽ ഇത് ക്ലോസ്ഡ് അല്ല എന്നാൽ ഏതെങ്കിലും ഗ്രൂപ്പ് എലെമെന്റിന്റെ കേർണലിലെ ഏതെങ്കിലും എലെമെന്റുമായുള്ള ഗുണനം കേർണലിലാണ് ഇതെന്തുകൊണ്ടാണ് ഇത് പരിശോധിക്കുന്നത് വളരെ എളുപ്പമാണ് എന്താണ് കേർണലിൽ എന്തെങ്കിലും ഉണ്ടോയെന്ന് പരിശോധിക്കുന്നതിന് അത് ഇമേജ് 0 ആണോ അല്ലയോ എന്ന് നമ്മൾ കാണണം അപ്പോൾ r a യുടെ φ എന്താണ് ϕ എന്നത് ഒരു റിംഗ് ഹോമോമോർഫിസം നിർവചിക്കുന്നത് a യുടെ φφ ആണ് ഇപ്പോൾ r എന്നത് ഗ്രൂപ്പ് ഘടകമാണ് r യുടെ φ യെക്കുറിച്ച് നമ്മൾക്ക് ഒന്നും അറിയില്ല പക്ഷേ a കേർണലിലാണെന്ന് നമുക്കറിയാം a യുടെ φ 0 ശരിയാണ് r ന്റെ φ എന്തോ ആണ് പക്ഷേ a യുടെ φ 0 ആണ് 0 0 ആണ് ra യുടെ φ 0 ആണ് അതിനാൽ അതിനർത്ഥം ra കേർണലിലാണ് ഇതിന് വളരെ ശക്തമായ മൾട്ടിപ്ലിക്കേറ്റിവ് ക്ലോഷർ പ്രോപ്പർട്ടി ഉണ്ട് കേർണലിൽ എന്തും എടുക്കുക കേർണലിന് പുറത്തുള്ള ഒന്നും കേർണലിലില്ലാത്ത എന്തെങ്കിലും എടുക്കുക പ്രോഡക്റ്റ് കേർണലിലാണ് അതിനാൽ കേർണലിന് ഇനിപ്പറയുന്ന ഗുണങ്ങളുണ്ട് ഒന്ന് ഇത് R ന്റെ ഒരു അഡിറ്റീവ് സബ്ഗ്രൂപ്പാണ് രണ്ട് a കേർണലിലാണെങ്കിൽ r റിംഗിലാണെങ്കിൽ പ്രോഡക്റ്റ് കേർണലിലാണ് ഇപ്പോൾ ഈ പ്രോപ്പർട്ടി ഉള്ള ഒരു റിങ്ങിന്റെ സബ്സെറ്റുകൾക്ക് ഒരു പ്രത്യേക പേര് നൽകാൻ നമ്മൾ ആഗ്രഹിക്കുന്നു കേർണൽ ϕ അതിന്റെ ഒരു പ്രത്യേക കേസാണ് കേർണൽ ϕ ഒരു "ഐഡിയൽ " ശരി എന്താണ് ഐഡിയൽ റിംഗ് സിദ്ധാന്തത്തിലെ വളരെ പ്രധാനപ്പെട്ട പദമാണിത് റിങ്ങുകളും ഹോമോമോർഫിസങ്ങളും നിർവചിച്ച ശേഷം അടുത്ത പ്രധാന കാര്യം ഇതാണ് ഞാൻ നിർവചനം എഴുതാം അത് ഒന്നും രണ്ടും ഗുണവിശേഷങ്ങളാണ് R ന്റെ ഒരു "ഐഡിയൽ" R നൽകുന്ന ഒരു സബ്വിഭാഗമാണ് ഞാൻ എഴുതിയ വ്യവസ്ഥകൾ കൃത്യമായി ആവർത്തിക്കാൻ പോകുന്നു I R ന്റെ ഒരു അഡിറ്റീവ് സബ്ഗ്രൂപ്പാണ് പ്രത്യേകിച്ചും അത് ശൂന്യമല്ലെന്ന് ഓർക്കുക 0 ഉണ്ടായിരിക്കണം കൂടാതെ ii ഞാൻ I ന്റെ ഘടകവും റിങ്ങിന്റെ ഘടകവും എടുക്കുകയാണെങ്കിൽ പ്രോഡക്റ്റ് I ലും ഉണ്ട് ആശയങ്ങൾ ഇതാണ് ഹോമോമോർഫിസത്തിന്റെ കേർണലുകൾ ഐഡിയലുകളാണ് വാസ്തവത്തിൽ ഹോമോമോർഫിസങ്ങളുടെ കേർണലുകൾ അല്ലെങ്കിൽ കൃത്യമായി ഐഡിയലുകൾ പൊതുവേ ഏത് ഐഡിയലും ഒരു അനുയോജ്യമായ റിംഗ് ഹോമോമോർഫിസത്തിന്റെ കേർണലായി മനസ്സിലാക്കാൻ കഴിയും ഐഡിയലുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണങ്ങൾ റിംഗ് ഹോമോമോർഫിസത്തിന്റെ കേർണലുകളാണ് ഒരു റിംഗ് ഹോമോമോർഫിസത്തിന്റെ കേർണലിന്റെ നിർവചനത്തിൽ നിന്നാണ് നമ്മൾ ആരംഭിച്ചത് ഇത് ഒരു സബ് റിംഗ് അല്ലെന്ന് നമ്മൾ ശ്രദ്ധിച്ചു പക്ഷേ ഇതിനെയാണ് നമ്മൾ ഇപ്പോൾ ഐഡിയൽ എന്ന് വിളിക്കുന്നത് ഐഡിയലുകളെക്കുറിച്ച് കൂടുതൽ മനസിലാക്കാൻ നമുക്ക് ചില ഉദാഹരണങ്ങൾ നോക്കാം റിംഗ് ഹോമോമോർഫിസം നമ്മൾ നേരത്തെ Z മുതൽ Z mod 4Z വരെ നോക്കി ഇതിന്റെ കേർണൽ എന്താണ് കേർണൽ ഈ കേസിൽ ഡൊമെയ്നിന്റെ ഒരു സബ്സെറ്റാണെന്ന് ഓർക്കുന്നു n ന്റെ φ പോലുള്ള എല്ലാ സംഖ്യകളും Z mod 4Z ന്റെ 0 ഘടകമാണ് അത് നമ്മുടെ നൊട്ടേഷനിൽ 0 ആണ് ഇത് കൃത്യമായി 4 ന്റെ എല്ലാ ഗുണിതങ്ങളാണ് ഈ ഹോമോമോർഫിസത്തിന് കീഴിൽ Z ലെ ഒരു ഘടകം 0 ലേക്ക് പോകുമ്പോൾ ഈ മാപ്പ് വലത്തേക്ക് n ബാറിലേക്ക് അയയ്ക്കുന്നത് ഓർക്കുക n ബാർ 0 ആയിരിക്കണം അതിനർത്ഥം n എന്നത് 4 ന്റെ ഗുണിതമായിരിക്കണം കേർണൽ കൃത്യമായി 4 ന്റെ ഗുണിതങ്ങളാണ് നമ്മൾ നോക്കിയ മറ്റൊരു ഉദാഹരണം നമുക്ക് Zx മുതൽ Z വരെ φ എന്ന് പറയാം ഇതാണ് സബ്സ്റ്റിട്യൂഷൻ മാപ്പ് ഓർമ്മിക്കുക φ2 ആണ് നമ്മൾ നോക്കിയതെന്ന് ഞാൻ കരുതുന്നു ഇവിടെ f f ലേക്ക് പോകുന്നു ഇതിന്റെ കേർണൽ എന്താണ് കേർണൽ Zx ലെ f 0 ആകുന്ന എല്ലാ പോളിനോമിയലുകളാണ് ഇപ്പോൾ ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് പോളിനോമിയൽ റിംഗുകൾക്കുള്ളിലെ വിഭജനത്തെക്കുറിച്ച് സംസാരിച്ചപ്പോൾ ഞാൻ സംസാരിച്ച എന്തെങ്കിലും ഓർമ്മിക്കാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നു ഓർമിക്കുക ഏത് റിംഗിലും R ഏതെങ്കിലും പോളിനോമിയൽ റിംഗ് Rx എന്നിവയിൽ നിങ്ങൾ α യെ R ൽ ശരിയാക്കുന്നുവെങ്കിൽ നമുക്ക് അങ്ങനെ പറയാം R x ലെ f അല്ലെങ്കിൽ g നമുക്ക് g നെ α കൊണ്ട് ഹരിക്കാം എല്ലായ്പ്പോഴും x α ഒരു മോണിക് പോളിനോമിയലാണ് നമുക്ക് g നെ x α കൊണ്ട് ഹരിക്കാം റിമൈൻഡർ gα ആണ് നിങ്ങൾ g നെ x α കൊണ്ട് ഹരിക്കുമ്പോൾ ഇത് റിമൈൻഡർ തെളിയിച്ചു ഇപ്പോൾ നിങ്ങൾ ഈ ആശയം നമ്മളുടെ സാഹചര്യത്തിൽ പ്രയോഗിക്കുകയാണെങ്കിൽ ഇപ്പോൾ f നെ x 2 കൊണ്ട് ഹരിക്കുമ്പോഴുള്ള റിമൈൻഡർ നമ്മുടെ കാര്യത്തിൽ f ആണ് ഇപ്പോൾ f കേർണലിലാണെങ്കിൽ f 0 യഥാർത്ഥത്തിൽ ഞാൻ ഇത് ഇതുപോലെ എഴുതാം f കേർണലിലാണെങ്കിൽ f 0 ആണെങ്കിൽ മാത്രം കാരണം അതാണ് കേർണലിന്റെ നിർവചനം f കേർണലിലാണെങ്കിൽ f 0 ആണെങ്കിൽ മാത്രം അതിനർത്ഥം f x 2 കൊണ്ട് ഹരിക്കുമ്പോഴുള്ള റിമൈൻഡർ 0 ശരിയാണെങ്കിൽ മാത്രമേ ഇത് സംഭവിക്കുകയുള്ളൂ കാരണം നിങ്ങൾ fനെ x 2 കൊണ്ട് ഹരിക്കുമ്പോൾ f കൃത്യമായി ശേഷിക്കുന്നു f 0 എന്നത് റിമൈൻഡർ ആണ് അതിനർത്ഥം f ഹരിക്കാവുന്നതാണ് അതാണ് റിമൈൻഡർ 0 ആകുമ്പോൾ നമ്മൾ പറയുന്നത് അത് വിഭജിക്കാവുന്നതാണെന്ന് നമ്മൾ പറയുന്നു ഉദാഹരണത്തിന് നിങ്ങൾ 2 കൊണ്ട് 4 ഹരിക്കുമ്പോൾ റിമൈൻഡർ 0 ആണ് മറുവശത്ത് 2 കൊണ്ട് 5 ഹരിച്ചാൽ റിമൈൻഡർ 1 ആണ് 2 കൊണ്ട് ഹരിക്കാനാവില്ല 5 f നെ x 2 കൊണ്ട് ഹരിക്കാം f x - 2 ന്റെ ഗുണിതമാണെന്ന് പറയാനുള്ള മറ്റൊരു മാർഗ്ഗമാണിത് മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ കേർണൽ ϕ എന്നത് കൃത്യമായി x 2 ന്റെ എല്ലാ ഗുണിതങ്ങളും ആണ് എനിക്ക് ഈ കേർണൽ φ2 കൃത്യമായി x 2 മടങ്ങ് h ആണ് ഇവിടെ h ഏതെങ്കിലും അനിയന്ത്രിതമാണ് Zx പോളിനോമിയൽ ഒന്നിലധികം x 2 എന്നാൽ x 2 മടങ്ങ് അനിയന്ത്രിതമായ കാര്യമാണ് φ2 ന്റെ കേർണലിനെ നമ്മൾ വിവരിക്കുന്നത് അങ്ങനെയാണ് കേർണലുകൾക്ക് ഈ നല്ല രൂപം ഉണ്ട് ഇപ്പോൾ നല്ല നിരീക്ഷണങ്ങളായി പരാമർശിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഇതൊരു ചെറിയ ലെമ്മ യാണ് ആദ്യ ഉദാഹരണത്തിൽ Z മുതൽ Z mod 4Z വരെയുള്ള മാപ്പിന്റെ മുകളിലുള്ള കേർണലിലേക്ക് നമ്മൾ നോക്കിയത് 4 ന്റെ ഗുണിതങ്ങളായി മാറി മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ എനിക്ക് ഇപ്പോൾ പറയാനുള്ളത് Z ന്റെ ഏത് ഐഡിയലിനും nZ എന്ന രൂപമുണ്ട് 0 ന് തുല്യമോ വലുതോ ആയ ചില n ന് ഇന്റിജെർകളുടെ റിങ്ങിന്റെ ഏതെങ്കിലും ഐഡിയലിന് nZ എന്ന ഫോം ഒരു nZ എന്താണെന്ന് ഓർമ്മിക്കുന്നുണ്ടോ ഇത് n ന്റെ എല്ലാ ഗുണിതങ്ങളുടെയും സെറ്റാണ് എല്ലാ ഗുണിതങ്ങളും എഴുതുന്നതിനുള്ള ഒരു ചെറിയ സൌകര്യപ്രദമായ നൊട്ടേഷൻ മാത്രമാണ് ഇത് Z എന്നത് ഒരു Z ൽ വ്യത്യാസപ്പെട്ടിരിക്കുന്നതിനെയാണ് സൂചിപ്പിക്കുന്നത് എല്ലാ ഐഡിയലുകൾക്കും ആ രൂപമുണ്ടെന്ന് ഞാൻ അവകാശപ്പെടുന്നു ഇത് വളരെ നല്ല ഫലമാണ് കാരണം നിങ്ങൾക്ക് വിചിത്രമായ സെറ്റുകൾ ഐഡിയലുകളാകാൻ കഴിയില്ല എല്ലാ ഐഡിയലുകളും ഈ രൂപത്തിലാണ് യൂക്ലിഡിയൻ ഡിവിഷനുകൾ ഉപയോഗിച്ചുള്ള ഒരു സാധാരണ പ്രൂഫാണ് നമുക്ക് ഇത് വേഗത്തിൽ ചെയ്യാം ഞാൻ Z ന്റെ ഒരു ഐഡിയൽ ആയിരിക്കട്ടെ ഞാൻ 0 ന് തുല്യമാണെങ്കിൽ ഞാൻ Z ന്റെ ഒരു അഡിറ്റീവ് സബ്ഗ്രൂപ്പാണെന്ന് ഓർമ്മിക്കുക അത് ശൂന്യമല്ല അതിൽ 0 അടങ്ങിയിരിക്കണം എങ്കിൽ അത് കൃത്യമായി 0 ആണെങ്കിൽ 0Z നമ്മൾ ശരിയായി ചെയ്തു ഇത് ശ്രദ്ധിക്കുക ഇത് വളരെ നല്ലതും ലളിതവും എന്നാൽ റിംഗ് സിദ്ധാന്തത്തിലെ വളരെ പ്രധാനപ്പെട്ടതുമായ ഒരു വാദമാണ് ഇതാണ് ഇത്തരത്തിലുള്ള കാര്യം എല്ലായ്പ്പോഴും വരുന്നത് ഞാൻ കേവലം 0 എലമെന്റ് ആണെങ്കിൽ അത് 0Z രൂപത്തിലാണ് കാരണം 0 മടങ്ങ് n എന്നത് 0 മടങ്ങ് a ആയി വ്യത്യാസപ്പെടുമ്പോൾ അത് വെറും 0 ആണ് നമ്മൾ പൂർത്തിയാക്കി ഓരോ ഐഡിയലും അവകാശപ്പെടുന്നു nZ ഫോമിന്റെ അത് 0 ആണെങ്കിൽ അത് 0Z ആണ് ഞാൻ സെറ്റ് പൂജ്യമല്ലെന്ന് കരുതുക മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ എനിക്ക് മറ്റ് ചില എലമെന്റ്സ് അടങ്ങിയിരിക്കുന്നു ഇപ്പോൾ നമുക്ക് ഊഹിക്കാമെന്ന് ഞാൻ ആദ്യം അവകാശപ്പെടുന്നു വാസ്തവത്തിൽ ഞാൻ പോസിറ്റീവ് സംഖ്യകൾ ഉൾക്കൊള്ളുന്നു പൂജ്യമല്ലാത്ത എന്തെങ്കിലും എന്റെ പക്കലുണ്ടെങ്കിൽ അതിൽ പോസിറ്റീവ് സംഖ്യകൾ അടങ്ങിയിരിക്കുന്നു കാരണം വളരെ ലളിതമായ ഉദാഹരണം ഉദാഹരണത്തിന് 10 ഒരു I ആണെന്ന് നമുക്ക് പറയാം പൂജ്യമല്ലാത്ത എന്തെങ്കിലും എന്റെ പക്കലുണ്ടെന്ന് നമുക്കറിയാം അത് പോസിറ്റീവ് ആണെങ്കിൽ നമ്മൾ ചെയ്തുവെന്ന് കരുതുക നമുക്ക് ഒരു നെഗറ്റീവ് സംഖ്യ എടുക്കാം പക്ഷേ ഞാൻ ഒരു സബ്ഗ്രൂപ്പ് ആയിരിക്കണം -10 ശരിയാണ് ഞാൻ ഒരു പോസിറ്റീവ് സംഖ്യ ഉൾക്കൊള്ളുന്നു നിങ്ങൾ ചെയ്ത ഒരു പോസിറ്റീവ് നമ്പർ നിങ്ങൾ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ അനുമാനമനുസരിച്ച് പൂജ്യമല്ലാത്ത ചില സംഖ്യകൾ അടങ്ങിയിരിക്കുന്നു നിങ്ങൾ ഒരു നെഗറ്റീവ് നമ്പർ തിരഞ്ഞെടുത്തുവെന്ന് കരുതുക I പോസിറ്റീവ് സംഖ്യകൾ ഉൾക്കൊള്ളുന്നു I ഇൽ പോസിറ്റീവ് സംഖ്യകൾ അടങ്ങിയിരിക്കുന്നു ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് I ലെ ഏറ്റവും ചെറിയ പോസിറ്റീവ് സംഖ്യയായിരിക്കട്ടെ എനിക്ക് എല്ലായ്പ്പോഴും ആ അവകാശം തിരഞ്ഞെടുക്കാനാകും ഒപ്പം എനിക്ക് ചില പോസിറ്റീവ് സംഖ്യകളും അടങ്ങിയിരിക്കുന്നു എനിക്ക് തിരഞ്ഞെടുക്കാൻ കഴിയാത്തതിൽ ഏറ്റവും വലുത് ആകാം പക്ഷേ എനിക്ക് എല്ലായ്പ്പോഴും ഏറ്റവും ചെറിയത് തിരഞ്ഞെടുക്കാനാകും ഞാൻ I ലെ ഏറ്റവും ചെറിയ പോസിറ്റീവ് സംഖ്യയായിരിക്കട്ടെ എന്നിട്ട് തിരഞ്ഞെടുക്കുക ഇപ്പോൾ ഞാൻ വാസ്തവത്തിൽ nZ ആണെന്ന് അവകാശപ്പെടുന്നു ഈ n നമ്മൾക്ക് വേണ്ടി ജോലി ചെയ്യും ഞാൻ nZ ആണ് ഇതെന്തുകൊണ്ടാണ് പോസിറ്റീവ് സംഖ്യകളെ ആദ്യം ശ്രദ്ധിക്കാൻ ആരെയെങ്കിലും അനുവദിക്കുക തിരഞ്ഞെടുക്കുക m പോസിറ്റീവ് ആയിരിക്കട്ടെ n തിരഞ്ഞെടുക്കുന്നതിലൂടെ m ≥ n m പോസിറ്റീവ് ആയതിനാൽ n പോസിറ്റീവ് ആണ് I ൽ അടങ്ങിയിരിക്കുന്ന ഏറ്റവും ചെറിയ പോസിറ്റീവ് സംഖ്യയാണ് m കുറഞ്ഞത് 10 ആണ് ഇപ്പോൾ m നെ n കൊണ്ട് ഹരിക്കുക നമുക്ക് ചെയ്യാൻ കഴിയുന്നത് m എന്നത് n q r ന് തുല്യമാണ് നമുക്ക് എല്ലായ്പ്പോഴും m നെ n കൊണ്ട് ഹരിക്കാം നമുക്ക് ഇത് ഇതുപോലെ എഴുതാം R ന്റെ പ്രോപ്പർട്ടി എന്താണ് r യഥാർത്ഥത്തിൽ 0 നേക്കാൾ വലുതും n നേക്കാൾ കുറവുമാണ് കാരണം നമ്മൾ n കൊണ്ട് ഹരിക്കുന്നു ബാക്കിയുള്ളവ m നേക്കാൾ കുറവായിരിക്കും എന്നാൽ ഇപ്പോൾ ഒരു രസകരമായ കാര്യം ശ്രദ്ധിക്കുക n I യിൽ നിന്നാണ് അതിനർത്ഥം nq I ലാണുള്ളത് m I ലുണ്ട് ചോയിസ് ശരിയാണ് അതിനർത്ഥം m - nq r ആണ് കാരണം n എന്നത് I ൽ nq I ലും m I ൽ m nq I ലും ആണ് എന്നാൽ m - nq r അങ്ങനെ അതിനർത്ഥം r എന്നത് I ലാണ് പക്ഷേ ഇപ്പോൾ നമ്മൾക്ക് ഒരു പ്രശ്നമുണ്ട് കാരണം r പോസിറ്റീവ് ആണെങ്കിൽ ഇത് ഒരു വൈരുദ്ധ്യത്തിലേക്ക് നയിക്കുന്നു എന്താണ് വൈരുദ്ധ്യം എന്താണ് വൈരുദ്ധ്യം r പോസിറ്റീവ് ആണെങ്കിൽ വിഭജന പ്രക്രിയ തിരഞ്ഞെടുക്കുന്നതിലൂടെ r എന്നത് n നേക്കാൾ കുറവാണ് r പോസിറ്റീവ് ആണെങ്കിൽ കാരണം നമ്മോടൊപ്പമുണ്ട് കാരണം n ഏറ്റവും ചെറുതാണ് I എന്നതിലെ ഏറ്റവും ചെറിയ പോസിറ്റീവ് സംഖ്യയാണ് n എന്ന വസ്തുതയാണ് വൈരുദ്ധ്യം കാണുക r പോസിറ്റീവ് r n നെക്കാൾ കുറവാണെങ്കിൽ r ഏറ്റവും ചെറുത് r I ലെ ഈ ചെറിയ പോസിറ്റീവ് സംഖ്യയേക്കാൾ ചെറുതാണ് ഇത് തീർച്ചയായും കോണ്ട്രാഡിക്ഷൻ ആണ് r0 ആയിരിക്കണം m നെ n കൊണ്ട് ഹരിക്കാം നമ്മൾ കാണിച്ചതെന്തെന്നാൽ ഞാനൊരു പോസിറ്റീവ് സംഖ്യ എടുക്കുകയും അത് n എന്നതിന്റെ ഗുണിതമാണെന്ന് കാണിക്കുകയും ചെയ്തു ഇപ്പോൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു I ലെ ഓരോ സംഖ്യയും n ന്റെ ഗുണിതമാണ് ഇപ്പോൾ മറുവശത്ത് m നെഗറ്റീവ് ആണെങ്കിൽ m I യിൽ ആണെങ്കിൽ മുകളിലുള്ള ആർഗ്യുമെൻറ് പ്രകാരം m എടുക്കുന്നു m നെഗറ്റീവ് ആണെങ്കിൽ m പോസിറ്റീവ് ആണെങ്കിൽ m എന്നത് n ന്റെ ഗുണിതമാണെന്ന് നമുക്കറിയാം അതിനാൽ വ്യക്തമായും m ഉം കാരണം m എന്നത് n മടങ്ങ് എന്തോ m എന്നത് n ന്റെ ഗുണിതമാണ് I ലെ ഓരോ സംഖ്യയും n ന്റെ ഗുണിതമാണ് കൂടാതെ n I ലും ഉള്ളതിനാൽ n ന്റെ ഓരോ ഗുണിതവും I ലാണെന്ന് കാണിക്കേണ്ടതുണ്ട് കാരണം I ഒരു ഐഡിയൽ ആണ് n ഉണ്ടെങ്കിൽ ഓരോ 2 തവണയും n ഉണ്ട് 3 തവണ n ഉണ്ട് n ഉണ്ട് 2 തവണ n ഉണ്ട് ആവശ്യാനുസരണം I nZ ന് തുല്യമാണ് Z ലെ ഓരോ ഐഡിയലും nZ രൂപത്തിലാണെന്ന് കാണിക്കുന്ന വളരെ മനോഹരമായ ഒരു പ്രൂഫാണിത് നമ്മൾ പിന്നീട് ഐഡിയലുകൾ ജനറേറ്ററുകളെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാനും പ്രധാന ഐഡിയലുകളെക്കുറിച്ച് സംസാരിക്കാനും പോകുന്നു ആ സമയത്ത് ഞാൻ ഇത് നിങ്ങളെ ഓർമ്മപ്പെടുത്തും ഇത് ഞാൻ അടുത്തതായി എന്തുചെയ്യും എന്നതിന്റെ പ്രിവ്യൂ മാത്രമാണ് Z ലെ എല്ലാ ഐഡിയലുകളും പ്രധാനമാണ് "പ്രിൻസിപ്പൽ ഐഡിയലുകൾ " എന്നത് ഒരൊറ്റ എലമെന്റ് സൃഷ്ടിച്ച ഐഡിയലുകളാണ് അടുത്തതായി എന്തുചെയ്യുമെന്ന് തിരനോട്ടം നടത്താനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നാൽ Z ലെ ഓരോ ഐഡിയലും ഒരു പോസിറ്റീവ് സംഖ്യ n അല്ലെങ്കിൽ തീർച്ചയായും 0 നെഗറ്റീവ് അല്ലാത്ത സംഖ്യ n സൃഷ്ടിക്കുന്ന ഒരു പ്രധാന ഐഡിയൽ ആണെന്ന് ഞാൻ പറഞ്ഞു ഞാൻ ഈ വീഡിയോ ഇവിടെ നിർത്താൻ പോകുന്നു പക്ഷേ അടുത്ത വീഡിയോയിൽ അല്ലെങ്കിൽ അടുത്ത വീഡിയോകളിലൊന്നിൽ അതേ ഫലം ഒരു വേരിയബിളിലോ ഫീൽഡിലോ പോളിനോമിയൽ റിംഗിനായി ഉണ്ടെന്ന് ഞാൻ കാണിക്കും അങ്ങനെ ഞാൻ അടുത്തതായി ചെയ്യും ഈ വീഡിയോയിൽ നമ്മൾ ഹോമോമോർഫിസങ്ങളുടെ കേർണലുകളിലേക്ക് നോക്കി ആ കേർണലുകൾക്ക് എന്ത് ഗുണങ്ങളാണുള്ളതെന്ന് നമ്മൾ പരിശോധിക്കുകയും അവ നമ്മൾ ഐഡിയലുകളായി നിർവചിച്ചതിന്റെ ഉദാഹരണങ്ങളാണെന്ന് ശ്രദ്ധിക്കുകയും ചെയ്തു കൂടാതെ വിവിധ റിങ്ങുകളിലെ ഐഡിയലുകളുടെ ഉദാഹരണങ്ങൾ നമ്മൾ പരിശോധിച്ചു പ്രത്യേകിച്ചും ഇന്റിജെർകളുടെ റിങ്ങിലെ ഓരോ ഐഡിയലും നെഗറ്റീവ് അല്ലാത്ത ഒരു സംഖ്യ n ന് nZ രൂപത്തിലാണെന്ന് നമ്മൾ കാണിച്ചു